ശരിയാണ് ഒരു ആന്റിനയുടെ മോഡലിംഗിനെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മൾ തുടരും ഒടുവിൽ കമ്പ്യൂട്ടേഷണൽ ഇലക്ട്രോമാഗ്നെറ്റിക്സ് ഉപയോഗിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേരും അതിനാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു റിയലിസ്റ്റിക് സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു ആന്റിന അറിയാമെന്ന് സങ്കൽപ്പിക്കുക ഞാൻ അതിലേക്ക് കുറച്ച് വോൾട്ടേജ് ഉറവിടം കണക്റ്റുചെയ്യുന്നു കുറച്ച് RF ഉറവിടം എനിക്ക് കുറച്ച് വിവരങ്ങൾ പ്രക്ഷേപണം ചെയ്യാൻ ആഗ്രഹമുണ്ട് നമ്മൾ പറഞ്ഞ കുഴപ്പം വയറിന്റെ നീളത്തിൽ കറന്റ് എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നുവെന്ന് നമ്മൾക്ക് സവിശേഷമായി അറിയില്ല എന്നതാണ് ഞാൻ അർത്ഥമാക്കുന്നത് കണക്റ്റുചെയ്തിരിക്കുന്ന പോയിന്റിലെ കറന്റിലുള്ള വോൾട്ടേജ് എന്താണെന്ന് എനിക്കറിയാം എന്നാൽ നീളത്തിലുടനീളം സ്പെയ്സിന്റെ ഒരു ഫംഗ്ഷൻ എന്ന നിലയിൽ J എന്താണെന്ന് എനിക്കറിയില്ല അതിനാൽ എനിക്ക് എങ്ങനെ A കണക്കാക്കാം എനിക്ക് എങ്ങനെ H കണക്കാക്കാം എനിക്ക് എങ്ങനെ E കണക്കാക്കാം അതിനാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് CEM സിദ്ധാന്തം ഉപയോഗിച്ച് കറണ്ട് എന്താണെന്നും കൂടാതെ തീർച്ചയായും എന്താണ് നമ്മെ സഹായിക്കുന്നത് ബൌണ്ടറി കണ്ടിഷൻസ് ആണ് പ്രകൃതിയിലെ കാര്യങ്ങൾ എല്ലായ്പ്പോഴും ശരിയാക്കുന്നത് ശരിയായ ബൌണ്ടറി കണ്ടിഷൻസ് നിർബന്ധിതമാക്കുന്ന ഒന്നാണ് ഉദാഹരണത്തിന് സംരക്ഷിക്കേണ്ട ടാൻജെൻഷ്യൽ ഫീൽഡുകൾ ഒരു കണ്ടക്ടറിൽ പൂജ്യമായിരിക്കേണ്ട ഫീൽഡുകൾ അങ്ങനെ ഇപ്പോൾ റിയലിസ്റ്റിക് ആന്റിന മോഡലിംഗ് വളരെ സങ്കീർണ്ണമാണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ അതിനാൽ ഇത് എങ്ങനെ കമ്പ്യൂട്ടേഷണലായി വീണ്ടും ചെയ്യാം എന്നതിന്റെ ആദ്യ ഡെമോൺസ്ട്രേഷൻ നൽകുന്നതിന് നമ്മൾ ലളിതമാക്കുന്ന അനുമാനങ്ങൾ ഉണ്ടാക്കും അതിനാൽ ലളിതമാക്കുന്ന അനുമാനങ്ങളിലൊന്ന് നമ്മുടെ കറന്റിന്റെ ഉറവിടം z അക്ഷത്തിലൂടെ ആണെന്ന് എടുക്കാം പക്ഷെ വളെരെ വണ്ണം കുറഞ്ഞ വയറിനെ വളരെ വണ്ണം കുറഞ്ഞതാക്കണം ഓക്കെ അതിനാൽ ഇവിടെ റേഡിയസ് a ഉള്ള നേർത്ത വയർ ശരി പിന്നീട് അത് എങ്ങനെ വലുതാക്കാം എന്ന് നമുക്ക് നോക്കാം എന്നാൽ അത് ഉണ്ടാക്കുന്നത് പോലും നിങ്ങൾ കണ്ടെത്തും ഈ റേഡിയസ് കനം കുറഞ്ഞതായിരിക്കുക എന്നത് തന്നെ ഒരു വെല്ലുവിളി നിറഞ്ഞ പ്രശ്നമാണ് അതിനാൽ ലാംഡയെ അപേക്ഷിച്ച് നമ്മൾ അതിനെ അനന്തമായി ചെറുതാക്കുന്നില്ല എന്നതാണ് ഒരേയൊരു കാര്യം അതിനാൽ കമ്പിയുടെ ഈ റേഡിയസ് ലാംഡയേക്കാൾ വളരെ വളരെ കുറവാണ് അതാണ് അനുമാനം ശരിയല്ലേ ഈ അനുമാനത്തിന് കീഴിൽ കറന്റ് z ദിശയിലേക്ക് പോകുമെന്ന് നമുക്ക് വീണ്ടും ഒരു അവകാശവാദം ഉന്നയിക്കാം റേഡിയസ് വളരെ ചെറുതായതിനാൽ കറന്റ് ലംബമായി മുകളിലേക്ക് പോകും അതിനാൽ സർപ്പിളമായി മുകളിലേക്ക് നീങ്ങുന്ന ഒരു കറന്റ് പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല റേഡിയസ് വലുതാകുമ്പോൾ അങ്ങനെ സംഭവിക്കാം പക്ഷേ ഈ അളവ് വളരെ ചെറുതാണെങ്കിൽ സാധാരണയായി വൈദ്യുതധാര മുകളിലേക്ക് ഉയരുo അതിനാൽ z ഡയറക്റ്റഡ് കറന്റുകൾ ഇതും ഒരു അനുമാനമാണ് അതിനാൽ നമ്മൾ ഉണ്ടാക്കുന്ന രണ്ട് അനുമാനങ്ങൾ ഇവയാണ് ഇതിനെ അടിസ്ഥാനമാക്കി ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഈ കാന്തിക വെക്റ്റർ പൊട്ടൻഷ്യൽ A കൂടാതെ സ്കെലാർ വെക്റ്റർ സ്കെലാർ പൊട്ടൻഷ്യൽ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്റഗ്രൽ സമവാക്യങ്ങൾ നമ്മൾ രൂപപ്പെടിത്തിയപ്പോൾ A യുടെ വ്യതിചലനത്തിനായി നമ്മൾ തിരഞ്ഞെടുത്ത ഒരു തിരഞ്ഞെടുപ്പെന്ന നിലയിലാണ് അപ്പോൾ ഇതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത് ലോറന്റ്സ് ഗേജ് വ്യവസ്ഥകൾ ശരിയല്ലേ അതിനാൽ ഇത് ആയിരുന്നു നമ്മളുടെ നമ്മളുടെ അനുമാനങ്ങൾ പ്രകാരം ഇത് എങ്ങനെ ലളിതമാക്കും എന്തൊക്കെയാണ് ഘടകങ്ങൾ ഓർക്കുക A എന്നത് ഏത് രൂപമാണ് A എന്നത് ഫോം കോൺവല്യൂഷൻ അതിനാൽ ഏത് രൂപമായിരിക്കും എനിക്ക് ഇത് അൽപ്പം കൂടി ലളിതമാക്കാൻ സഹായിക്കുക വിദ്യാർത്ഥി ഭ്രംശം ഉണ്ടാവും ഭ്രംശം ഉണ്ടാവും വിദ്യാർത്ഥി ഉണ്ടായിരിക്കും A എന്നത് z ദിശയിൽ മാത്രമാണ് അതിനാൽ z ഘടകങ്ങൾ മാത്രമാണ് ശരി കാരണം ഇവിടെ A J യിൽ നിന്ന് വരുന്നുകൂടാതെ J യ്ക് ഒരു z ഘടകം മാത്രമേ ഉള്ളൂവെങ്കിൽ A യ്ക് ഒരു z ഘടകം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളു അടുത്തതായി നമ്മൾക്ക് ഉണ്ടായിരുന്നത് പൊട്ടൻഷ്യൽ ടേമിൽ ഉള്ള വൈദ്യുത മണ്ഡലത്തിനായുള്ള ഒരു ബന്ധമായിരുന്നു അതാണ് ഇവിടെയുള്ള ഈ ബന്ധം അതിനാൽ നമ്മൾ കാന്തിക മണ്ഡലത്തിലേക്ക് പോകുന്നില്ല നമ്മൾ രണ്ടാമത്തെ മാർഗ്ഗത്തിലൂടെ വൈദ്യുത മണ്ഡലത്തിലേക്ക് പോകുന്നു എനിക്ക് H ൽ നിന്നും പോകാമായിരുന്നു കൂടാതെ പിന്നെ H ൽ നിന്ന് E യിലേക്കും അവർ A യിൽ നിന്ന് E ലേക്ക് നേരിട്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്നും ഞാൻ യിൽ നിന്ന് E ലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്നും ഊഹിക്കാമോ വീണ്ടും പറയുക കാന്തിക വെക്റ്റർ പൊട്ടൻഷ്യൽ എന്നത് അല്ല ഈ A കാന്തിക വെക്റ്റർ പൊട്ടൻഷ്യൽ ആണ് വിദ്യാർത്ഥി നമുക്ക് A കണ്ടെത്തേണ്ടതുണ്ട് വിദ്യാർത്ഥി h ഉം u ഉം തമ്മിൽ ഞങ്ങൾക്ക് ബന്ധമുണ്ട് ഇല്ല ഇല്ല എന്ന് നമുക്ക് ഉപയോഗിക്കാം ഓംസ് നിയമം റെസിസ്റ്ററിൽ സാധുതയുള്ള ഓംസ് നിയമമല്ല ഇവിടെ കുറച്ചുകൂടി സങ്കീർണ്ണമാണ് J എന്നത് E ക്ക് ആനുപാതികമായിരിക്കില്ല എനിക്ക് A കിട്ടിയാൽ ഫീൽഡുകൾ ലഭിക്കാൻ സാധാരണയായി നമ്മൾ എന്താണ് ചെയ്യുക ഞാൻ എങ്ങനെ എഴുതും എന്നതാണ് എന്റെ ചോദ്യം വിദ്യാർത്ഥി നമുക്ക് കണ്ടെത്താം സമയം റഫർ ചെയ്യുക 0604 കൂടാതെ ഞാൻ കണ്ടെത്തുകയും ചെയ്യാം ഇല്ല എന്റെ ചോദ്യം ഇതാണ് എനിക്ക് A യിൽ നിന്ന് ഫീൽഡുകളിൽ എത്തണം അതിനാൽ എനിക്ക് ഒരിക്കൽ A കിട്ടിയാൽ അതിൽ നിന്ന് എനിക്ക് H ലേക്ക് പോകാം കൂടാതെ H ൽ നിന്ന് H ലെ ഒരു കേൾ എടുത്ത് E യിലേക്ക് പോകാം പകരം ഞാൻ E എന്ന് നേരിട്ട് A യുടെയും എന്നതിന്റെയും അടിസ്ഥാനത്തിൽ എഴുതുകയാണ് ഇവിടെ എനിക്ക് കൂടുതൽ ജോലികൾ ചെയ്യേണ്ടതുണ്ട് ഞാൻ കണ്ടെത്തേണ്ടതുണ്ട് നേരത്തെ ഞാൻ A മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂവെങ്കിൽ എനിക്ക് ഉടൻ തന്നെ H ലഭിക്കും അതിനാൽ എന്റെ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ Maxwell's equations ഞാൻ എഴുതുമ്പോൾ മുന്നോട്ട് നോക്കുന്നതിന്റെ ഭാഗമാണിത് പ്രശ്നം പരിഹരിക്കാൻ എന്നെ സഹായിക്കുന്ന എന്തും ഞാൻ എങ്ങനെ നടപ്പിലാക്കും ബൌണ്ടറി കണ്ടിഷൻസ് ബൌണ്ടറി കണ്ടിഷൻസ് എന്നിവയാണ് എന്നെ സഹായിക്കാൻ പോകുന്നത് അതിനാൽ ഒരു മികച്ച വൈദ്യുതിവാഹകമായ ഒരു ലോഹ വയറിനെക്കുറിച്ച് നിങ്ങളുടെ ന്യായമായ അനുമാനമാണ് എങ്കിൽ ഒരു പൂർണ്ണ വൈദ്യുതിവാഹകത്തിൽ എനിക്ക് H അല്ലെങ്കിൽ E യിൽ എന്ത് തരത്തിലുള്ള ബൌണ്ടറി കണ്ടിഷൻസ് ആണ് ചുമത്താൻ കഴിയുക വിദ്യാർത്ഥി E E ശരിയാണ് കാരണം ഒരു കണ്ടക്ടറിനുള്ളിൽ വൈദ്യുത മണ്ഡലം 0 ആണ് അതിനാൽ അതാണ് എന്റെ ലക്ഷ്യം ഒരു കണ്ടക്ടറിനുള്ളിലെ ഫീൽഡുകൾ 0 ആയി ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഗുണമാണത് അതിനാൽ അതിനായി എനിക്ക് വൈദ്യുത മണ്ഡലം ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ A യിൽ നിന്ന് ലേക്ക് പോകുന്നത് അതിനാലാണ് ഞാൻ ഇവിടെ എഴുതിയത് ഒപ്പം കൂട്ടിച്ചേർത്തത് എനിക്ക് E തരാൻ പോകുന്നു അതിനാൽ ഞാൻ വൈദ്യുത മണ്ഡലം എഴുതുന്നത് എന്തുകൊണ്ടാണെന്ന് മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്ന ഒരു തരത്തിലാണ് ഇത് വിദ്യാർത്ഥി ഘടകങ്ങൾ കാന്തശക്തി അവിടെ ഉണ്ട് വിദ്യാർത്ഥി ടാൻജെൻഷ്യൽ ഇല്ല ഒരു കണ്ടക്ടറിൽ H ൽ നിങ്ങൾ എങ്ങനെയാണ് ടാൻജൻഷ്യൽ വ്യവസ്ഥകൾ പ്രയോഗിക്കുന്നത് ഒരു ഇലക്ട്രിക് കണ്ടക്ടറിൽ വിദ്യാർത്ഥി സമയം റഫർ ചെയ്യുക 0740 സാധാരണ നിലയിലായിരിക്കാൻ അതെ അതിനാൽ ഏറ്റവും ലളിതമായ അതിർത്തി വ്യവസ്ഥയായ 0 ലേക്ക് പോകുന്ന ഫീൽഡ് കൈകാര്യം ചെയ്യുന്നത് ലളിതമാണ് അപ്പോൾ ഈ E ഇപ്പോൾ എങ്ങനെ പരിഷ്കരിക്കും അതിനാൽ നമുക്ക് ഈ നിബന്ധനകളെല്ലാം ഇവിടെ പുറത്തെടുക്കാം അതിനാൽ ഞാൻ ലഭിക്കാൻ പോകുന്നു ഇനിയെന്ത് ഇപ്പോൾ എനിക്ക് ഈ പ്രോപ്പർട്ടി ഇവിടെത്തന്നെ ഉപയോഗിക്കണം എങ്ങനെയെങ്കിലും കറന്റിനുവേണ്ടി പരിഹരിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം എന്ന് ഞാൻ ഓർക്കും G ഏത് രൂപത്തിലാണ് അതെ അതെ അതുകൊണ്ടാണ് നമ്മൾ ഈ അനുമാനം ഉപയോഗിക്കുന്നത് അത് ഒരു ഫങ്ക്ഷൻ അല്ല വിദ്യാർത്ഥി z നിർദ്ദേശം ചെയ്യപ്പെടാം പക്ഷേ അത് സമയം റഫർ ചെയ്യുക 1020 ആയിരുന്നില്ല അതെ അവയെല്ലാം ഈ വഴിക്ക് പോകുന്നതിനാൽ ഇവിടെ ചുറ്റിക്കറങ്ങുന്നില്ല വിദ്യാർത്ഥി അതിനാൽ അവർക്ക് അവിടെയുണ്ടെന്ന് അറിയാമായിരുന്നു പക്ഷേ ഇപ്പോഴും അവിടെ സ്ഥിരാങ്കങ്ങൾ ആയിരിക്കും a ചെറുതല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ആരം ചെറുതല്ലെങ്കിൽ അവയ്ക്ക് ചുറ്റും കറങ്ങാൻ കഴിയും അപ്പോൾ അത് x y z എന്നിവയുടെ ഒരു ഫംഗ്ഷനായി മാറും ഒരു ഹെലിക്സ് സങ്കൽപ്പിക്കുക ഞാൻ ഹെലിക്സ് എടുക്കുമ്പോൾ അത് x y എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾക്കറിയാം z നെ മാത്രമല്ല അതിനാൽ ഈ അനുമാനം മാറുമെന്നതിനാൽ ഇവിടെ ശരിയാകില്ല എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് അതിനാൽ പൊതുവേ 3D കൺവോലൂഷൻ ശരിയാണ് എന്റെ കൈയിൽ വളരെ സാധാരണമായ എക്സ്പ്രെഷൻ G ഉണ്ട് ഇത് J യുമായി പിണഞ്ഞിരിക്കുന്നു ഞാൻ പ്രൈംഡ് കോർഡിനേറ്റുകളിൽ സംയോജിപ്പിക്കുകയാണ് അതിനാൽ ഇടതുവശത്ത് വൈദ്യുത മണ്ഡലം ഉള്ള ഒരു എക്സ്പ്രെഷൻ നമ്മൾക്ക് ലഭിച്ചു അത് അറിയാമോ വൈദ്യുത മണ്ഡലം ഇതുവരെ അറിയപ്പെട്ടിട്ടുണ്ടോ അതിനാൽ വൈദ്യുത മണ്ഡലം എന്താണെന്ന് ഇതുവരെ അറിയാത്തതുപോലെ തോന്നുന്നു അതിനാൽ നമ്മൾ അതിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് അതിനാൽ ഞാൻ ഇവിടെ ഒരു ചോദ്യചിഹ്നം ഇടാൻ പോകുന്നു G എന്താണെന്നറിയാം J എന്താണെന്നറിയില്ല അതിനാൽ എനിക്ക് E യും J യും അറിയില്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ വളരെയധികം അറിയാത്ത ഘടകങ്ങൾ ഉണ്ട് എന്ന് ഞാൻ എന്തുകൊണ്ടാണ് അർത്ഥമാക്കുന്നത് അതെ കാരണം അകത്തും ഉപരിതലത്തിലും എവിടെയും എന്താണ് വൈദ്യത മണ്ഡലം ശരി E യുടെ ആകെത്തുക 0 ത്തിന് തുല്യമാണ് ഇപ്പോൾ ഞാൻ ഇവിടെ എഴുതിയ ഈ വൈദ്യുത മണ്ഡലം ഈ സമവാക്യം 1 ലെ മൊത്തം വൈദ്യുത മണ്ഡലമാണോ ഇതാണ് അങ്ങനെ സംഭവിക്കുന്ന ഫീൽഡ് സങ്കൽപ്പിക്കുക ആന്റിനയിൽ ഒരു പ്ലെയിൻ വേവ് വീഴുന്നത് ശരിയാണെന്ന് സങ്കൽപ്പിക്കുക ആ പ്ലെയിൻ വേവ് ആന്റിനയിൽ ഒരു കറന്റ് ഉണ്ടാക്കുന്നു ഈ J കറന്റ് ആണ് അതിനാൽ ആകെ എത്ര ഫീൽഡുകൾ ഉണ്ട് ഈ വൈദ്യുതധാരയാൽ പ്രചോദിതമായ കറന്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫീൽഡ് ഉണ്ട് തുടർന്ന് ഒരു സ്രോതസ്സ് കാരണം ഇതിനകം ഉണ്ടായിരുന്ന ഒരു ഫീൽഡ് ഉണ്ട് സ്വീകരിക്കുന്ന ആന്റിനയുടെ കാര്യത്തിൽ അത് ഉറവിടത്തിൽ വീഴുന്ന ഒരു തരംഗമാണ് ഒരു ട്രാൻസ്മിറ്റിംഗ് ആന്റിനയുടെ കാര്യത്തിൽ ജനറേറ്റർ വലത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫീൽഡ് ഉണ്ടാകാൻ പോകുന്നു അത് പ്രാദേശികവൽക്കരിച്ചേക്കാം ഉദാഹരണത്തിന് ഞാൻ ഒരു വോൾട്ടേജ് സ്രോതസ്സ് ചില സ്ഥലങ്ങളിൽ ബന്ധിപ്പിക്കുന്നു അതിനാൽ ഇവിടെ വൈദ്യുത മണ്ഡലം ഉണ്ട് പക്ഷേ മറ്റെവിടെയെങ്കിലും അല്ല അതിനാൽ പൊതുവേ ഇത് E ഇൻസിഡന്റും കൂടാതെ E സ്കാറ്റേർഡും ആയിരിക്കും അതിനാൽ ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സ്കാറ്റേർഡ് ഫീൽഡ് സ്കാറ്റേർഡ് എന്നതിൻറെ അർത്ഥം പ്രേരിത വൈദ്യുതധാര കാരണം സ്കാറ്റേർഡ് ആയി എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് അതെ എന്നാൽ അത് ഏതെങ്കിലും അർത്ഥത്തിൽ E ഇൻസിഡന്റിനെ റദ്ദാക്കുന്നില്ല എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് E ഇൻസിഡന്റിനെ കുറിച്ച് നിങ്ങൾക്ക് മറക്കാൻ കഴിയില്ല എന്നാണ് അതിനാൽ അതിനാലാണ് മൊത്തം ഫീൽഡ് ഇവ രണ്ടും ഇവ രണ്ടും ചേർന്ന് 0 ആയി രൂപപ്പെടുന്നത് അതിനാൽ ഈ സമവാക്യം 1 തുടർന്ന് ലളിതമാവും മൈനസ് E ഇൻസിഡന്റിന് തുല്യമാണ് ഞാൻ E ഇൻസിഡന്റ് മുകളിൽ എഴുതാൻ പോകുന്നു ഇവിടെ ഒരു z ഇടുക കാരണം ഞാൻ സംസാരിക്കുന്നത് z പൊതുവായതിനെക്കുറിച്ചാണ് വിദ്യാർത്ഥി പിന്നെ ഞാനാണെങ്കിൽ സമയം റഫർ ചെയ്യുക 1503 വിദ്യാർത്ഥി അത് ഒരു തരത്തിലാണ് വിദ്യാർത്ഥി അതിനെ വിളിക്കാൻ തുടങ്ങുന്നു കാരണം അവർ നമ്മൾ ശക്തിയിൽ നിന്ന് പുറത്തുപോകുന്നില്ല കാരണം ഞാൻ അത് ചെയ്യില്ല അതെ ശരി അതിനാൽ ഞങ്ങൾ ഉറവിട മോഡലിംഗിലേക്ക് പിന്നീട് വരാം പക്ഷേ നിങ്ങൾക്ക് ഒരു ഉദാഹരണം താരം എന്നെ അനുവദിക്കു ഇത് എന്റെ ആന്റിന ശരിയാണെന്ന് കരുതുക ഞാൻ ഇതിലുടനീളം കുറച്ച് വോൾട്ടേജ് ഉറവിടം ബന്ധിപ്പിച്ചിട്ടുണ്ട് അതിനാൽ ഈ വോൾട്ടേജ് ഉറവിടം ഇവിടെ കുറച്ച് വൈദ്യുത മണ്ഡലം ഉത്പാദിപ്പിക്കാൻ പോകുന്നു അതിനാൽ ആ ഇൻസിഡന്റ് ഫീൽഡിന് അവിടെ മാത്രമേ സാധുതയുള്ളൂ വോൾട്ടേജ് ഉറവിടത്തിന് പുറത്ത് നിങ്ങൾ ഒരു വൈദ്യുത മണ്ഡലവും കണ്ടെത്താൻ പോകുന്നില്ല എന്നാൽ ഇത് ഇപ്പോൾ ഇവിടെ ഒരു കറന്റ് സൃഷ്ടിച്ചു അതിനാൽ നിങ്ങൾക്ക് അവ രണ്ടും ഇവിടെയുണ്ട് ഈ കറന്റ് ഒരു സ്കാറ്റേർഡ് ഫീൽഡ് സൃഷ്ടിക്കാൻ പോകുന്നു വിദ്യാർത്ഥി ഇൻസിഡന്റ് ഫീൽഡ് അവിടെ ആയിരിക്കും അതിനാൽ ഞാൻ ഇവിടെ ചില പോയിന്റുകൾ പരിഗണിക്കുകയാണെങ്കിൽ വോൾട്ടേജ് ഉറവിടം മൂലവും ഇതുപോലെയുള്ള ഫീൽഡ് കാരണം J ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നതുമായ ഒരു ഇൻസിഡന്റ് ഫീൽഡ് ഉണ്ടാകും രണ്ടുo അവിടെ വരാൻ പോകുന്നു ഞാൻ ഇപ്പോൾ ഇത് ബന്ധിപ്പിച്ചതുകൊണ്ടല്ല ഇൻഡ്യൂസ് വൈദ്യുതധാര മൂലമുണ്ടാകുന്ന ഫീൽഡ് ഇൻഡ്യൂസിനെ എനിക്ക് അവഗണിക്കാം ശരിയായി ഓർക്കുക ഇൻഡ്യൂസ്ഡ് കറന്റ് ഒരു ഫീൽഡ് ഉണ്ടാക്കുന്നു അവർ അതിനെ സ്കാറ്റേർഡ് ഫീൽഡ് എന്ന് വിളിക്കുന്നു ഇൻഡ്യൂസ്ഡ് ഫീൽഡ് ഇൻഡുസ്ഡ് കറന്റ് സ്കാറ്റേർഡ് ഫീൽഡ് അല്ല ഈ രണ്ടു ടേമുകൾ ആണ് നിങ്ങൾ നിലനിർത്തേണ്ടത് അതിനാൽ ഇപ്പോൾ ഈ ചോദ്യചിഹ്നം ഒരു ടിക്ക് അടയാളമായി മാറുമെന്ന് എനിക്കറിയാം ഇത് ഇടത് വശം ആണെന്ന് എനിക്കറിയാം അതിനാൽ ഇൻഡ്യൂസ്ഡ് കറന്റും സ്കാറ്റേർഡ് ഫീൽഡും എനിക്കറിയാം കൂടാതെ ഇതിൽ J ഒഴികെ എല്ലാം എനിക്കറിയാം ഇപ്പോൾ അജ്ഞാതമായ അവിഭാജ്യ ചിഹ്നത്തിനുള്ളിൽ J പ്രത്യക്ഷപ്പെടുന്നു അതിനാൽ ഈ ഫ്രെഡ്ഹോമിന്റെ അവിഭാജ്യ സമവാക്യം ഏത് തരത്തിലുള്ള അവിഭാജ്യ സമവാക്യമാണ് ശരി ഇപ്പോൾ നിങ്ങൾ പോയി ഇത് പരിഹരിക്കുകയാണെങ്കിൽ ഇത് കുറച്ച് പ്രശ്നമുണ്ടാക്കും കാരണം ഇത് ഇവിടെത്തന്നെ ഒരു 3D കൺവല്യൂഷനാണ് അതിനാൽ ഇത് എങ്ങനെ പരിഷ്കരിക്കാമെന്ന് നോക്കാം